നാം ഇപ്പോൾ അവസാനത്തെ അധ്യായത്തിലെത്തിയിരിക്കുന്നു നമ്മുടെ മെമ്മറി സ്റ്റോറേജിൽ നിന്നും ഓർമ്മകൾ ക്രോഡീകരിക്കുന്നതിലുപരി ഓർമ്മകൾ വീണ്ടെടുക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന പ്രതിഭാസമായ മറവിയെ ആയിരിക്കും ഇന്ന് കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യർ മറക്കുന്നു എത്രത്തോളം മറക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെയും കുറിച്ചായിരിക്കും നാം മനസിലാക്കുക എന്ത് എന്തുകൊണ്ട് എത്രത്തോളം എന്നതിലേക്ക് വരുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ടതായും അതുപോലെ അംഗീകരിക്കെണ്ടാതായതുമായ ഒരു കാര്യമെന്തെന്നാൽ മറവി എന്നത് മനുഷ്യൻറെ മാനസിക ഘടനയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് ദീർഘകാല ഓർമ്മയിലേക്ക് വിക്ഷേപിക്കപ്പെട്ട സന്ദേശം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കുന്നില്ല തുടർന്നിത് മറവിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഒരു രീതിയിൽ നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ അതിൽ വ്യക്തമായ ചില നേട്ടങ്ങളുണ്ട് സമയം കടന്നുപോകുമ്പോൾ വൈകാരികമായ വേദനയും ദുഃഖവും മയപ്പെടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാപ്പെട്ടതായ കാര്യം സമയം എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തുന്നു എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകണം അപ്പോൾ മുറിവുകളിൽ സമയം എന്താണ് ചെലുത്തുന്നത് അടിസ്ഥാനപരമായി അത് നമുക്ക് മനോവികാരമുണ്ടാക്കുന്ന അവസ്ഥകളെ സന്തുലിതമാക്കുന്നു അതായത് നമ്മുടെ സങ്കടത്തിൻറെ വ്യാപ്തി ക്രമേണ അത് മയപ്പെടുത്തുന്നു എന്നതാണ് അതുപോലെ മറവി എന്നത് ഭൂതകാല അനുസ്മരണത്തെ ഭംഗം വരുത്തുന്ന വളച്ചൊടിക്കുന്ന ഒന്നായാണ് കണക്കാക്കുന്നത് ഒരുപക്ഷേ സത്യം മറ്റൊന്നാവാം നിങ്ങൾ വിവരിച്ചെടുക്കുന്നതോ അതിൽ നിന്നും വ്യത്യസപ്പെട്ടതും അതുപോലെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുമാകുന്നു പക്ഷെ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മറവിയുടെ മൂല്യത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ മറവിയുടെ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്നുകിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവ സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ടാകുന്നു പലതവണ നിങ്ങൾ അറിയാതെ മറക്കുന്നതും അതുപോലെ മനപ്പൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നതുമായ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം അപ്രധാനമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടതോ തനതുരൂപത്തിൽ വീണ്ടെടുക്കാൻ കഴിയാത്തതോ ആയ കാര്യങ്ങൾ അതിനാൽ നാം വിവരങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചില പിശകുകൾ അതിൽ വരുത്തുകയും ചെയ്യുന്നു ഇതിനെയാണ് മറവി എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫലപ്രദമായ രീതിയിൽ വീണ്ടെടുക്കുവാൻ പറ്റാതെ വരുകയും ചെയ്യുന്നു ഇതിനെ മറവി എന്ന് വിളിക്കുന്നു മറ്റുള്ളവർ എന്തുകൊണ്ട് മറക്കുന്നതെന്നത് വിശദീകരിക്കുന്ന സിദ്ധാന്തങ്ങളുടെ ഒരു നീണ്ട പരമ്പരകൾ തന്നെയുണ്ട് മറവിയുടെ പ്രക്രിയകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രബലമായ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്കറിയുവാൻ ശ്രമിക്കാം ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സിദ്ധാന്തമാണ് അപചയ സിദ്ധാന്തം അടിസ്ഥാനപരമായി അപചയ സിദ്ധാന്തം പറയുന്നതെന്തെന്നാൽ വിവരങ്ങളുടെ കൂട്ടായ്മ എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തുന്ന പല സങ്കൽപങ്ങളെകുറിച്ചും അതുപോലെ ആ കൂട്ടായ്മക്കകത്തുള്ള ശൃംഖലകളെയും കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നല്ലോ സമാന തരത്തിലുള്ള പല സംഭവങ്ങളും വീണ്ടും ആവർത്തിക്കുമ്പോൾ സമാനതയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മാറ്റം ചെയ്യപ്പെടുന്നു അങ്ങനെ ആവർത്തനത്തിലൂടെ ഓർമ്മയെ കണ്ടെത്തുകയും അവ വളരെയധികം ബലവത്താകുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ മനഃപാഠമാക്കിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുക പക്ഷെ ആ സമയം ആവർത്തിച്ചു പഠിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചില്ല അപ്പോൾ എന്താണുണ്ടാവുക അവിടെ രൂപപ്പെട്ട അനുബന്ധം വളരെയധികം ദുർബലമാകുന്നു കൂടാതെ ബന്ധം എത്രത്തോളം ദുർബലമാകുന്നുവോ വിവരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള അവസരങ്ങളും ക്രമേണ വലുതാവുന്നു അങ്ങനെ എല്ലായിടത്തും കാലക്രമേണ അനുബന്ധം ദുർബലമാകുമ്പോൾ സമയത്തിൻറെ പ്രവർത്തനങ്ങളിലൊന്നായ മറവി അവിടെ പ്രാവർത്തികമാവുകയും കാലക്രമേണ ആ വിവരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിനെയാണ് അപചയ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് സമയം കഴിഞ്ഞതോടെ ആ വിവരങ്ങൾ ആവർത്തിച്ചു മനസ്സിലാക്കാൻ അവസരം ലഭിക്കാതെ വരികയും അതുവഴി രൂപപ്പെടുന്ന മെമ്മറി ട്രെയ്സ് ശോഷിക്കുകയും ഓർത്തെടുക്കാൻ പ്രയാസം നേരിടുകയും ചെയ്യുന്നു ഇതിനെയാണ് അപചയ സിദ്ധാന്തം എന്ന് പറയുന്നത് മറക്കുന്നതിനെ വിശദീകരിക്കുന്ന മറ്റൊരു രസകരമായ സിദ്ധാന്തമാണ് ഇടപെടൽ സിദ്ധാന്തം ഇടപെടൽ എന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഇടപെടുന്ന രണ്ടു കാര്യങ്ങൾ അതിയായി വ്യാപിക്കുന്നു ഇപ്പോൾ ഇടപെടൽ എന്നുള്ളത് രണ്ടു തരത്തിലാകാം പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നാം നേരത്തെ പഠിച്ച കാര്യങ്ങൾ അതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടാകുന്നു എന്നത് പഠന കൈമാറ്റത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അതുപോലെയുള്ള ഒരു സാധ്യതയായിരുന്നു ഇത് കൂടാതെയുള്ള മറ്റൊരു സാധ്യതയാണ് പുതിയതായി പഠിച്ച കാര്യങ്ങൾ ഇത് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല ഇടപെടൽ സിദ്ധാന്തത്തിൻറെ കാര്യത്തിലും ഇതുപോലെ സമാനമായ അവസ്ഥകൾ ഉണ്ടാകുന്നു രണ്ടു തരത്തിലുള്ള ഇടപെടലുകളാണുള്ളത് റെട്രോക്റ്റീവോ പ്രോക്റ്റീവോ ആകാം പുതിയതായി പഠിച്ച വിവരം നേരത്തെ സൂക്ഷിച്ച വിവരത്തെ വീണ്ടെടുക്കുന്നത് തടയുന്ന സാഹചര്യത്തെ പ്രോക്റ്റീവ് ഇടപെടൽ റെട്രോക്റ്റീവ് ഇടപെടൽ എന്ന് പറയാം ഞാൻ നേരത്തെ ഒരു കാര്യം പഠിച്ചു അതുപോലെ കുറച്ചു നേരത്തെ വേറെയൊരു കാര്യവും പഠിച്ചു പക്ഷെ പുതിയതായി പഠിച്ച കാര്യം നേരത്തെ മനഃപാഠമാക്കിയ കാര്യത്തെ ഓർത്തെടുക്കാൻ അനുവദിക്കുന്നില്ല പുതിയതായി പഠിച്ച വിവരം കൊണ്ടുള്ള ഇടപെടൽ കാരണം ദീർഘകാല സംഭരണിയിൽ നേരത്തെ ശേഖരിച്ചുവെച്ച കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു ഇതിനെയാണ് റെട്രോക്റ്റീവ് ഇടപെടൽ എന്ന് വിളിക്കുന്നത് ഇതിൻറെ നേരെ വിപരീതമാണ് പ്രോക്റ്റീവ് ഇടപെടൽ നേരത്തേ പഠിച്ച വിവരങ്ങൾ പുതിയതായി പഠിച്ച വിവരങ്ങളുമായി ഇടപെടുന്നതിനെ പ്രോക്റ്റീവ് ഇടപെടലെന്നു കണക്കാക്കാം എൻറെ കൈവശം ഇതിനകം ചില കാര്യങ്ങളുണ്ട് എൻറെ ദീർഘകാല ഓർമ്മയിൽ ഇതിനകം ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പുതിയതായി ഒരു കാര്യം പഠിക്കുന്നു ഞാനത് മനഃപാഠമാക്കുന്നു ഞാൻ പുതിയതായി പഠിച്ച കാര്യം എപ്പോൾ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുന്നുവോ അപ്പോളെല്ലാം എങ്ങനെയോ നേരത്തേയുള്ള വിവരങ്ങൾ കൂടി അതിനോടൊപ്പം വരുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ മനഃപാഠമാക്കിയ കാര്യങ്ങൾ പുതിയതായി വന്ന വിവരങ്ങളെ വീണ്ടെടുക്കുന്നതിൽ ഇടപെടുന്നു ഇതിനെയാണ് പ്രോക്റ്റീവ് ഇടപെടൽ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇടപെടൽ സിദ്ധാന്തം പറയുന്നതെന്തെന്നു വച്ചാൽ ഇടപെടൽ എന്നത് ഒന്നുകിൽ പ്രോക്റ്റീവോ അല്ലെങ്കിൽ റെട്രോക്റ്റീവോ ആണ് നാം വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ പുതിയതും പഴയതുമായ വിവരങ്ങൾ തമ്മിലുള്ള മത്സരത്തെ തുടർന്നു വീണ്ടെടുക്കുവാനാകാതെ വരികയും ചെയ്യുന്നു എന്നതാണ് വസ്തുത അങ്ങനെ വേണ്ട വിവരങ്ങൾ തിരിച്ചെടുക്കുന്നതിലെ കൃത്യതക്കുറവിൽ പിശക് പറ്റുന്നതിനെയാണ് ഒരു തരത്തിൽ മറവി എന്ന് പറയുന്നത് മൂന്നാമത്തെ സിദ്ധാന്തം എന്നത് വിവരങ്ങൾ ദീർഘകാലത്തേക്ക് എങ്ങനെ സംഭരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാവിയിൽ വിവരങ്ങൾ തിരയുമ്പോൾ അതിനുചിതമായ പേരുകൾ കൊടുക്കുന്നത് തിരച്ചിൽ പ്രക്രിയയെ മയപ്പെടുത്തുന്നു എന്നത് നാം ദീർഘകാലവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതായ ഒരു തന്ത്രമായി ചർച്ചചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇനി ഉചിതമായ ഒരു സൂചന നൽകുന്നതിൽ എതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അതായത് അപര്യാപ്തമായ സൂചന കാരണം നിങ്ങൾക്ക് വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയിയുന്നില്ല എങ്കിൽ അതിനെ ക്യൂ ഡിപ്പൻറഡ് ഫോർഗെറ്റിംഗ് എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ പര്യാപ്തമായ സൂചന നൽകാത്തതിൽപക്ഷം വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയാതെ വരുന്നു ഇതാണ് ക്യൂ ഡിപ്പൻറഡ് ഫോർഗെറ്റിംഗ് നാം എന്തൊകൊണ്ട് മറക്കുന്നു എന്നതിനെ വിവരിക്കാൻ ശ്രമിക്കുന്ന മൂന്നാമത്തെ സിദ്ധാന്തം കൂടാതെ അടിസ്ഥാനപരമായി നാലാമത്തെ സിദ്ധാന്തം സംഭരണ സംവിധാനത്തിൻറെ മൊത്തത്തിലുള്ള പരാജയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സെൻസറി ഓർമ്മയിൽ ഇന്ന് മുതൽ ഹ്രസ്വകാല ഓർമ്മയിലേക്കും അവിടെനിന്ന് ദീർഘകാല ഓർമ്മയിലേക്കും എന്ന രീതിയിലാണ് ഓർമ്മ സഞ്ചരിക്കുന്നത് ദീർഘകാല ഓർമ്മയിലാണ് വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എത്രത്തോളം വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയും അതുപോലെ എത്രത്തോളം വിവരങ്ങൾ നിലനിർത്താനാകും എന്നതാണ് പ്രമേയം എവിടെയെങ്കിലും ഈ സിദ്ധാന്തത്തെ നിങ്ങൾക്ക് ചെറിയ പ്രതീകാത്മക ക്രമത്തിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവ് അല്ലെങ്കിൽ എസ് ഡി കാർഡ് ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നതെന്തെന്നു വച്ചാൽ നിങ്ങളുടെ എക്സ്റ്റേണൽ ഡിവൈസ് പെൻ ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങളുടെ എസ് ഡി ഡ്രൈവ് എന്നതിന് ഈ ശേഷി ഉണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതിന് ഒരു റ്റി ബി വലിപ്പമുണ്ട് ഇപ്പോൾ ആ എക്സ്റ്റേണൽ ഡ്രൈവിന് ഒരു റ്റി ബി വരെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശേഷിയേ ഉള്ളൂ ആ നിലയിലേക്ക് നിങ്ങൾ എത്താൻ തുടങ്ങുന്ന നിമിഷം അത് നിങ്ങൾക്ക് ഇത്രത്തോളം വിവരങ്ങൾ മാത്രമേ ഇനി ശേഖരിക്കാൻ കഴിയൂ എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു എന്തെന്നാൽ ഈ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസിൻറെ പരിധിയിൽ എത്തപ്പെട്ടതുകൊണ്ടാണ് അതിനാൽ സൂക്ഷിക്കപ്പെടേണ്ട വിവരങ്ങൾ നിലനിർത്തപ്പെടുന്നത് മൊത്തത്തിലുള്ള ശേഷിയെ ആശ്രയിച്ചിരിക്കും എന്ന അനുമാനം ഒരു സംഭരണ പരാജയത്തിൻറെ സിദ്ധാന്തവുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ദീർഘകാല മെമ്മറി സിസ്റ്റത്തിൻറെ ആത്യന്തിക ശേഷി നിർണ്ണയിക്കാൻ കഴിയാത്തതാകുന്നു എന്നത് ദീർഘകാല സംഭരണത്തിൽ നാം ഓർക്കേണ്ടതായ ഒരു കാര്യമാവുന്നു നമുക്കാകെ അറിയാവുന്നതെന്തെന്നു വച്ചാൽ വ്യക്തിപരമായ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിയും മറ്റ് പ്രസക്തമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുമായിരിക്കും മിക്ക കാര്യങ്ങളും നമ്മിൽ നിലനിർത്തപ്പെടുന്നത് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ കാര്യങ്ങൾ നാം എപ്പോളും ഓർക്കുന്നു എപ്പോളും സൂക്ഷിക്കുന്നു കൂടാതെ അത് ഓർത്തെടുക്കുന്നതിൽ ഒരു രീതിയിലുമുള്ള പിശകും വരുത്തുന്നുമില്ല അതേസമയം ചില പ്രത്യേക സമയങ്ങൾ കഴിയുമ്പോൾ ചിലതരം വിവരങ്ങൾ പ്രാധാന്യമർഹിക്കപ്പെടാതെ വരികയും ചെയ്യുന്നു ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതു കൊണ്ട് ഒരു കവിത നിങ്ങൾ മനഃപാഠമാക്കുന്നു അടിസ്ഥാനപരമായി ഈ കവിത നിങ്ങൾ മനഃപാഠമാക്കിയത് നിങ്ങളുടെ പരീക്ഷയിൽ വിജയകരമായി സ്കോർ ചെയ്യുന്നതിൻറെ ഉദ്ദേശ്യം നിറവേറ്റുന്നതിനായി മാത്രമായിരുന്നു കൂടാതെ ഇത് മറന്നു പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ് നോട്ട്ബുക്കിൽ നിന്നും മനഃപാഠമാക്കിയ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ അധ്യാപകർ ഇട്ട ചുവന്ന നിറത്തിലെ അടയാളം ഓർക്കുന്നു കോമകളും പൂർണ്ണവിരാമവും എല്ലാം നിങ്ങൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അതെല്ലാം മറക്കുവാൻ തുടങ്ങുന്നു കുറച്ചു സമയത്തിനു ശേഷം ഈ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ ഓർക്കുന്നുമില്ല ഇപ്പോൾ ഈ സിദ്ധാന്തങ്ങളെല്ലാം അതിനെ വിശദീകരിക്കാനായി ഉപയോഗിക്കാം ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അപചയം ഈ പ്രക്രിയയെ വിശദീകരിക്കുന്നു മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ക്യൂ ഡിപ്പൻറഡ് ഫോർഗെറ്റിംഗ് ഈ പ്രക്രിയയെ വിശദീകരിക്കുന്നു അതുപോലെ വേറൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംഭരണ സംവിധാനം ഈ പ്രക്രിയയെ വിശദീകരിക്കുന്നു കൂടാതെ ഇടപെടൽ സിദ്ധാന്തം മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും തന്നിരിക്കുന്ന എല്ലാ സിദ്ധാന്തവും അടിസ്ഥാനപരമായി മനുഷ്യർ മറക്കുന്നതിൻറെ കാരണം വിശദീകരിക്കുന്നു നമുക്കൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം ഹെർമൻ എബിങ്ങസ് എന്ന മനഃശ്ശാസ്ത്രജ്ഞനാണ് ആദ്യമായി മറവിയെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തിയത് എന്നത് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്തതെന്തെന്ന് വച്ചാൽ അദ്ദേഹം വീണ്ടും നോൺസെൻസ് സിലബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിൽ മനുഷ്യർ എത്രത്തോളം മറക്കുന്നു എന്നത് കണക്കാക്കുവാൻ ശ്രമിച്ചു അതിനാൽ സമയത്തിൻറെ പ്രവർത്തനത്തിലൂടെ ഒർമ്മയിലുണ്ടാവുന്ന മങ്ങലിനെ മറവി എന്നതായി പരീക്ഷണത്തിലൂടെ പരിശോധിച്ചുറപ്പിക്കുവാൻ കഴിഞ്ഞു ഈ വക്രരേഖയാണ് എബിങ്ങസ് മുന്നോട്ട് വച്ച മറവിയുടെ വക്രരേഖ Y അക്ഷത്തിൽ ഓർമ്മശക്തിയും X അക്ഷത്തിൽ ദിവസങ്ങളുടെ എണ്ണവുമായിരുന്നു അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്തത് എത്രത്തോളം വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം വിവരങ്ങൾ നഷ്ടപ്പെട്ടു അദ്ദേഹം നോൺസെൻസ് സിലബിൾസ് ആണ് ഈ പഠനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർക്കുക അതിനാൽ അർത്ഥപൂർണ്ണതയെ ഇതിനോടകം ശ്രദ്ധിച്ചിരുന്നു മനഃപാഠമാക്കേണ്ട പല വിവരങ്ങൾക്കും പ്രത്യേക അർത്ഥം ഉണ്ടായിരുന്നില്ല ഇവയെയെല്ലാം ഇപ്പോൾ അർത്ഥമില്ലാത്ത വിവരങ്ങളായാണ് കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ എത്രത്തോളം നഷ്ടം സംഭവിക്കുന്നു എന്നതിനെയാണ് എബിങ്ങസ് പഠിക്കുവാനായി ശ്രമിച്ചിരുന്നത് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരിൽ 47 ശതമാനം വിവരങ്ങൾ നഷ്ടപ്പെട്ടു എന്നത് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ 53 ശതമാനം വിവരങ്ങൾ നഷ്ടപ്പെട്ടു 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 56 ശതമാനത്തോളം നഷ്ടം നമുക്കുണ്ടായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 66 ശതമാനവും 2 ദിവസം കഴിഞ്ഞപ്പോൾ 72 ശതമാനവും ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ 75 ശതമാനവുമായി തുടർന്നു ഒരു മാസത്തിനു ശേഷം 79 ശതമാനത്തോളം വിവരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ ഈ വക്രരേഖയിൽ നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ പ്രതിഭാസത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും ആദ്യ കുറച്ച് മിനിറ്റുകളിലെ നഷ്ടപ്പെടൽ വളരെ ഉയർന്നതായിരിക്കെ ക്രമേണേയത് സ്ഥിരത കൈവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനാൽ ഒരു മണിക്കൂർ മുതൽ അതായത് 60 മിനിറ്റ് മുതൽ 9 മണിക്കൂർ വരെ നിങ്ങൾക്ക് 3 ശതമാനത്തോളം നഷ്ടം ഉണ്ടായിട്ടുള്ളൂ അതേസമയം ആദ്യ 20 മിനിറ്റിനുള്ളിൽ വലിയൊരു തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് 47 ശതമാനത്തോളം വിവരങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി 20 മുതൽ 60 മിനിറ്റ് വരെയുള്ള 40 മിനിറ്റ് ഇടവേളയിൽ നഷ്ടപ്പെട്ട വിവരത്തിന്റെ അളവ് ഗണ്യമായി കുറവാണ് വെറും 6 ശതമാനം കൂടുതൽ മാത്രം 9 മണിക്കൂറിനുള്ളിൽ 3 ശതമാനവും ഒരു ദിവസം എന്ന 24 മണിക്കൂർ കടക്കുമ്പോൾ വെറും 10 ശതമാനം മാത്രമേ ഗണ്യമായി നഷ്ടപ്പെടുന്നുള്ളൂ അതിനാൽ ഇതിലൂടെ വളരെയധികം നഷ്ടം സംഭവിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കൂടാതെ രണ്ടാമത്തെ ദിവസത്തിന്റെ അവസാനത്തിൽ വിവരത്തിൽ ഉണ്ടായത് 72 ശമാനം എന്നിരിക്കെ ഏഴാമത്തെ ദിവസത്തിൽ വിവരങ്ങളിൽ ഉണ്ടായ നഷ്ടം വെറും 75 ശതമാനമായി മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ അതിനാൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 ശതമാനത്തോളം വിവരങ്ങൾ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ പ്രാരംഭ ഘട്ടത്തിൽ വിവരങ്ങളുടെ കനത്ത നഷ്ടമുണ്ടാകുകയും ക്രമേണ അതിൽ സ്ഥിരത കൈവരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അടിസ്ഥാനപരമായി മനുഷ്യൻറെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് 7 ദിവസം അതായത് ഒരാഴ്ച നാം പൂർത്തിയാക്കുമ്പോൾ വിവരങ്ങൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ സ്ഥിരത കൈവരിച്ചു എന്നത് നാം മനസ്സിലാക്കുന്നു ചെറിയ രീതിയിൽ നഷ്ടം സംഭവിച്ചാലും ഇപ്പോളും സ്ഥിരതയുല്ലതായി അത് നിലകൊള്ളുന്നു മറവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻറെ അവസാനത്തിൽ നാം എത്തിയിരിക്കുന്നു എബിങ്ങസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കാം നിലനിർത്തൽ പ്രക്രിയയിലൂടെ എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാം കഴിഞ്ഞു എന്നതു മനസ്സിലാക്കാൻ എബിങ്ങസ് ഒരു സൂത്രവാക്യം നൽകുകയുണ്ടായി അതിനാൽ ഈ രീതിയെ ആവർത്തനപഠനമെന്നോ അല്ലെങ്കിൽ സംരക്ഷണ രീതിയെന്നോ വിളിക്കാം ആയതിനാൽ പുതിയ പഠനത്തിൽ എടുത്ത സമയവും യഥാർത്ഥ പഠനത്തിൽ എടുത്ത സമയവും തമ്മിൽ കുറക്കപ്പെടുന്നു എന്നതാണ് അദ്ദേഹം പ്രസ്താവിച്ചത് നിങ്ങൾ ഒരു വിവരം മനഃപാഠമാക്കുന്നു അത് മറക്കുന്നു വേണ്ടും അത് മനഃപാഠമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അപ്രകാരം യഥാർത്ഥത്തിൽ എടുത്ത സമയവും അടുത്ത ശ്രമത്തിൽ എടുത്ത സമയവും കൊണ്ട് യഥാർത്ഥ പഠനത്തിലെ സമയത്തെ ഹരിക്കുന്നു കൂടാതെ 100 കൊണ്ട് അതിനെ ഗുണിക്കുകയും ചെയ്യുന്നു എന്നതിനെയാണ് എബിങ്ങസ് സംരക്ഷണ രീതി എന്ന് വിളിച്ചത് ധാരാളം സമയം ഇതിലൂടെ ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസിലായിട്ടുണ്ട് വിപുലീകരണത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വയമേവയുള്ള വീണ്ടെടുക്കലിനെ പരാമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുവല്ലോ അത് നമ്മുടെ സമയം ലാഭിക്കാൻ ഒരുപാട് സഹായിക്കുകയുണ്ടായി എന്നത് തിരിച്ചറിയേണ്ടതാണ് യഥാർത്ഥ വിവരങ്ങൾ പഠിക്കുവാൻ മൃഗങ്ങൾ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും വിപുലീകരണം നടന്നുകഴിഞ്ഞാൽ സ്വമേധയാ വീണ്ടെടുക്കൽ പ്രക്രിയ വളരെ വേഗതയുള്ളതാണെന്ന് നാം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അനന്തര പഠനം വളരെ കുറച്ച് ശ്രമങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെയാണ് ഓർമ്മയുടെ കാര്യത്തിലും അതിനാൽ വിവരങ്ങൾ മനഃപാഠമാക്കുവാൻ അടുത്ത ഘട്ടത്തിൽ എടുത്ത സമയം ആദ്യത്തെ സമയത്തിൽ നിന്നും വ്യത്യസപ്പെട്ടിരിക്കുന്നു കൂടാതെ മറവിയുടെ പ്രക്രിയയിൽ എബിങ്ങസിൻറെ സംഭാവനയാകുന്നിത് എങ്കിൽ ഇതുവരെ നാം എന്തെല്ലാമാണ് ചർച്ച ചെയ്തത് ഓർമ്മയുടെ പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിച്ചു മറക്കുന്ന പ്രക്രിയയെയും ചുരുക്കി മനസ്സിലാക്കുവാനും നാം ശ്രമിച്ചു ഓർമ്മയുടെ പ്രാധാന്യവും മറവിയുടെ ഭംഗി അംഗീകരിക്കുന്നതും നാം ഇപ്പോൾ തിരിച്ചറിയുന്നു കാര്യങ്ങൾ മനഃപാഠമാക്കുന്നതിലുള്ള വ്യക്തികളുടെ മൊത്തത്തിലുള്ള ശേഷിയ്ക്ക് മാറ്റ് കൂട്ടുന്ന സാഹചര്യത്തെ നാമെല്ലാവരും എല്ലായ്പ്പോഴും ദൃശ്യവൽക്കരിക്കുന്നു അതിനാൽ ഓർമ്മ മികച്ചതാകാനുള്ള ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഇത് വളരെ സംക്ഷിപ്തമായി ചർച്ച ചെയ്യാം നാല് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം ഒന്നുകിൽ അമിതമായ പഠനത്തിലൂടെയോ അതുമല്ലെങ്കിൽ മറ്റു മൂന്ന് സാങ്കേതിക വിദ്യകളായ നിമോണിക്സ് രീതിയോ ലോക്കസ് രീതിയോ കൂടാതെ നമ്പർ പെഗ് സാങ്കേതികതയോ ആകാം അതിനാൽ അടുത്ത രണ്ടു മിനിറ്റിനുള്ളിൽ വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ ഓർമ്മ വർധിപ്പിക്കാൻ കഴിയുന്ന രീതികൾ നമുക്ക് ചർച്ചയും ചെയ്യാം അതിനോടൊപ്പം നിങ്ങൾക്കത് പരീക്ഷിക്കുകയും ചെയ്യാം അടിസ്ഥാനപരമായി ഒരു മൊത്തം പ്രക്രിയ യന്ത്രികമാകുന്നതുവരെ ആ ഒരു പ്രക്രിയ തുടരെ തുടരെ ആവർത്തിക്കുന്നതാണ് അമിത പഠന പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇത് നിരവധി തവണ ചെയ്യുന്നതല്ലാതെയൊന്നുമില്ല അമിത പഠനമെന്നത് പല തവണ ആവർത്തിക്കുന്ന പ്രക്രിയയാണ് അതുവഴി വിവരങ്ങൾ കൂടുതൽ യന്ത്രികമാകുന്നു അമിത പഠനം വളരെ ശ്രമകരമായ സമീപനമാണ് മറ്റുചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നിമോണിക്സ് എന്നത് മറ്റൊരു രസകരമായ രീതിയാണ് അടിസ്ഥാനപരമായി നിമോണിക്സ് ഉപകരണങ്ങൾ നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങുന്നതുമായി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മയുമായി ബന്ധപ്പെടുത്തി വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സഹായിക്കുന്നു റൈമുകളും ജിങ്കിളുകളും ആണ് നിമോണിക്സിൻറെ ഉദാഹരണങ്ങൾ ഒരു റൈ ആവർത്തനമല്ലാതെ നിങ്ങൾക്ക് വളരെ നല്ല ഉദാഹരണം നൽകുവാൻ എനിക്ക് കഴിയില്ല ഒരു അനുഭവം നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് കഴിയും എൻറെ പഠന കാലഘട്ടത്ത് തത്വചിന്ത പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു അദ്ദേഹം ആ പുസ്തകം മുഴുവനും അതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മനഃപാഠമാക്കിയിരുന്നു കൂടാതെ വളരെ കട്ടിയായ തത്ത്വചിന്താ കാഴ്ചപ്പാടുകളും സിദ്ധാന്തങ്ങളും നഴ്സറി റൈമുകൾ യോജിപ്പിക്കുന്നതിനെ നിങ്ങൾ എന്തായിരിക്കും വിളിക്കുക അതിനാൽ നിങ്ങൾ ജിങ്കിൾ ബെൽ ജിങ്കിൾ ബെൽ ജിങ്കിൾ ഓൾ ദ വേ എന്നത് ഓർക്കുന്നുവെങ്കിൽ വലിയ വലിയ സിദ്ധാന്തങ്ങൾ അത്തരം റൈമുകളിലേക്ക് ഉൾപ്പെടുത്തുകയും കൂടാതെ ആ റൈം ഓർത്തെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നു എന്തെന്നാൽ അദ്ദേഹം ഇതിനകം അത് മനഃപാഠമാക്കിയിരുന്നു ഇത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായുള്ളൂ കൂടാതെ ഈ സൂചനകൾ ഉപയോഗിച്ചു കൊണ്ട് വലിയ സിദ്ധാന്തങ്ങളൊക്കെ വീണ്ടെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നു റൈമുകളും ജിങ്കിളുകളും വാക്കാലുള്ളതാണെങ്കിലും ദൃശ്യമായതായും ശ്രവണപരമായതുമായ ഘടനകളിൽ റൈമുകളെയും ജിങ്കിളുകളെയും ചിന്തിക്കാവുന്നതുമാണ് ഈ ഉദാഹരണത്തിലൂടെ നാം അത് കാണുകയുണ്ടായി ഈ ഗാനം കുട്ടി എങ്ങനെ പാടിയിരുന്നു എന്ന അദ്ധ്യായം അമ്മ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ഉദാഹരണം ഉപയോഗിച്ചു നാം നോക്കുകയായിരുന്നു പക്ഷെ ആ കുട്ടി റൈമുകൾ പഠിക്കുന്നത്തിൻറെ ദൃശ്യം ഒരിക്കൽ കൂടെ നമുക്ക് കാണാം ഒരു കവിത മനഃപാഠമാക്കുവാൻ ഒരു കുട്ടി നടത്തിയ യഥാർത്ഥ ശ്രമം കാണാൻ ക്ലിപ്പ് നോക്കുക രണ്ടു രീതികളാണ് നാം ചർച്ച ചെയ്തത് ഒന്നുകിൽ അമിതമായി പഠിക്കും അല്ലെങ്കിൽ ചില റൈമുകളും ജിങ്കിളുകളും മനഃപാഠമാക്കും അങ്ങനെ പുതിയതായുള്ള വിവരങ്ങൾ ശ്രുതികളിലേക്കും ജിങ്കിളുകളിലേക്കും പരിവർത്തനം ചെയ്യുന്നതിലൂടെ നിലവിലുള്ള ശ്രുതികളിലേക്കും ജിങ്കിളുകളിലേക്കും അത് ചേർക്കപ്പെടുന്നു അങ്ങനെ നിങ്ങൾക്ക് മികച്ച ഓർമ്മ ലഭിക്കുന്നു വിവരങ്ങൾ സംഭരിക്കുന്നതിനുള്ള നിങ്ങളുടെ ശേഷിയെ വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ രീതിയാണ് ലോക്കസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നു വച്ചാൽ നിങ്ങൾ ഇതിനകം ഒരിടത്തെ മനഃപാഠമാക്കി എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജ് കെട്ടിടം നിങ്ങളുടെ സ്കൂൾ കെട്ടിടം നിങ്ങളുടെ ഓഫീസ് അതിനാൽ എവിടെ പ്രവേശിക്കണം എങ്ങനെ നീങ്ങണം ഇടനാഴിയിലൂടെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് അതുപോലെ മറ്റു പലതും എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൻറെ ഒരു നിശ്ചയം നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾക്ക് ആ ഇടത്തിൻറെ ഓർമ്മ ലഭിച്ചാൽ മനഃപാഠമാക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വിവരങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ പക്കൽ മനഃപാഠമാക്കേണ്ട വാക്കുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം മനഃപാഠമാക്കിയ ഇടവുമായി അതിനെ ബന്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഗേറ്റ് ഇടനാഴി ആദ്യത്തെ വാതിൽ തവിട്ട് വാതിൽ പച്ച വാതിൽ എന്നിവയായിരിക്കും കെട്ടിടത്തിലെ പ്രധാന സ്ഥലങ്ങൾ ഒരു മാനസികമായ നടപ്പാതയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് അതിലൂടെ ലോകത്തിൻറെ മാനസിക പ്രതിച്ഛായ നിങ്ങൾ രൂപീകരിക്കുന്നു തുടർന്ന് നിങ്ങൾ ചെയ്യുന്നതെന്തെന്നാൽ മാനസികമായ നടപ്പാതയിൽ ഈ വാക്കുകളെ മാനസിക പ്രതിച്ഛായകളെ തേടിപിടിക്കുന്നു അങ്ങനെ അടുത്ത സമയത്ത് നിങ്ങൾക്കത് ഒർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇടത്തിലൂടെ കടന്നു പോയാൽ മതിയാകും രണ്ടാമത്തെ തവണ മാനസിക നടപ്പാതയുടെ ഈ പ്രക്രിയയിൽ പ്രധാന കവാടം കാണുന്ന മാത്രയിൽ തന്നെ അതിനെ പിന്തുടർന്ന് പച്ച വാതിൽ തവിട്ട് വാതിൽ ഇടത്തോട്ട് തിരിയൽ വലത്തോട്ട് തിരിയൽ അതുപോലത്തെ തിരിച്ചറിഞ്ഞ പ്രാധാന്യമുള്ള അടയാളങ്ങൾ എന്നിവയുടെ വാക്കുകൾ നി ങ്ങൾ ഓർക്കുകയും മാനസികമായ നടപ്പാതയിൽ പ്രാധാന്യമുള്ള അടയാളങ്ങൾ ഇപ്പോൾ മാനസിക പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ട് പോകുവാൻ സഹായിക്കുന്നു ഓർമ്മ ശക്തിയുടെ കഴിവിൽ ഗിന്നസ് റെക്കോർഡുള്ള വ്യക്തി പരീക്ഷണത്തിൽ പ്രകടനം നടത്തുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹം ആകെ ഉപയോഗിക്കുന്നത് ഈ പ്രവൃത്തിരീതിയാണ് ഓർമ്മ വർധിപ്പിക്കുവാൻ സഹായിക്കുന്ന അവസാനത്തെ രീതിയാണ് നമ്പർ പെഗ് ടെക്നിക്ക് വളരെ രസകരമായ ഒരു സാങ്കേതികതയാണ് നമ്പർ പെഗ് ടെക്നിക്ക് നിങ്ങൾക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട് ആ തന്നിരിക്കുന്ന മൊത്തം വിവരങ്ങളും അക്കങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതായി വരുന്നു തുടർന്നു ഈ അക്കങ്ങളെ കഥാരൂപേണ ബന്ധിപ്പികുകയും തുടർന്നു നിങ്ങൾ ആ കഥ മനഃപാഠമാക്കുകയും അതിലൂടെ മൊത്തം വിവരങ്ങളും ഒർത്തെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ ഒരു അരയന്നത്തെ കാണുന്നു തുടർന്ന് ഇതിൽ നിന്നും ഇതിനകം നിങ്ങൾക്ക് ഒരു യഥാർത്ഥ മാനസിക ചിത്രം ലഭിക്കുകയും അതിലൂടെ അതിനെ 2 എന്ന അക്കത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുകയും ചെയ്തു ഇതുപോലെ നിങ്ങളുടെ മെമ്മറി സിസ്റ്റത്തിൽ ഇതിനകം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും അക്കത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും കൂടാതെ അത് എത്രത്തോളം താളാത്മകമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഞാൻ ഒരു അക്കം നിങ്ങളോട് മനഃപാഠമാക്കുവാൻ ആവശ്യപ്പെടും 359924 എന്നീ അക്കങ്ങളാണ് നിങ്ങൾക്ക് മനഃപാഠമാക്കേണ്ടതായി വരുന്നത് ഹ്രസ്വകാല സംഭരണത്തിൻറെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനായി 3 ൻറെ ഭാഗമായും 4 ൻറെ ഭാഗമായും വിവരങ്ങളെ വേർതിരിച്ച് ഭാഗിക്കൽ എന്നതിലൂടെ ഈ കാര്യം നാം പരിശീലിച്ചത് ഇതേ തുടർന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇപ്പോൾ നാം നമ്പർ പെഗ് ടെക്നിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൂടാതെ 359924 എന്ന അക്കങ്ങളാണ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളോട് മനഃപാഠമാക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക ഇപ്പോൾ ഈ അക്കങ്ങളെ മറ്റൊന്നിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് പരിവർത്തനം ചെയ്തുകൊണ്ടൊരു കഥ നിർമ്മിക്കുക അപ്പോൾ 3 ത്രീ എന്നതിൻറെ താളാത്മക പദമായിരിക്കും ട്രീ 5 ഫൈവ് എന്നതിൻറെ താളാത്മക പദമായിരിക്കും ഹൈവ് 9 നയൻ ലൈൻ 2 റ്റു ഷൂ 4 ഫോർ ഡോർ അങ്ങനെ അടിസ്ഥാനപരമായി ഇതെല്ലാം താളാത്മക പദമാകുന്നു കൂടാതെ ഈ അക്കത്തിനെ പരിവർത്തനം ചെയ്ത് മറ്റൊന്നിലേക്ക് ഘടിപ്പിക്കുയും തുടർന്ന് ഒരു കഥയുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ 3 ത്രീ എന്ന ട്രീ മരം ഇവിടെ ഇപ്പോൾ ഒരു മരം ഉണ്ടാക്കി എന്നതാണ് നിങ്ങൾ ആകെ ചെയ്തത് അങ്ങനെ ഇത് 3 ത്രീ 5 ഫൈവ് എന്നത് ഹൈവ് തേനീച്ചക്കൂട് 9 നയൻ എന്നത് ലൈനും വരിയും 2 റ്റു എന്നത് ഷൂവും കൂടാതെ 4 ഫോർ എന്നത് ഡോർ വാതിലുമാകുന്നു ആയതിനാൽ ഒരിക്കൽ കൂടി ഈ കഥ നമുക്ക് നോക്കാം 359924 എന്നീ അക്കങ്ങളാണ് നമുക്ക് നൽകിയിരുന്നത് അപ്പോൾ 3 ത്രീ ട്രീ മരമായിരുന്നു അപ്പോൾ നിങ്ങൾ ഒരു മരം ഉണ്ടാക്കി 5 ഫൈവ് ഹൈവ് തേനീച്ചക്കൂടായിരുന്നു മരത്തിൽ നിങ്ങൾ ഒരു തേനീച്ചകൂട് കൂടി ഉൾപ്പെടുത്തി രണ്ട് 9 ഉള്ളതുകൊണ്ട് നിങ്ങൾ രണ്ട് വര വരച്ചു നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നതെന്തെന്നാൽ ഒരു മരത്തിൽ നിന്നും തേനീച്ചകൂട്ടിൽ നിന്നും രണ്ടു തേനീച്ചകൾ വാതിലിലൂടെ പ്രവേശിച്ച് ഷൂവിനടുത്തേക്ക് പോകുന്നു അപ്പോൾ തെനീച്ചക്കൂടുള്ള ഒരു മരത്തിൽ നിന്ന് തേനീച്ചകൾ രണ്ടു വരിയായി പറന്ന് വാതിലിനകത്തുള്ള ഷൂവിൽ ചെന്നിരുന്നു ആയതിനാൽ തേനീച്ചകൂടുള്ള മരത്തിൽ നിന്ന് രണ്ട് തേനീച്ചകൾ ഒരു നേർ രേഖയെ പിന്തുടർന്ന് വാതിലിലൂടെ പ്രവേശിച്ച് ഷൂസിൻറെ അകത്തേക്ക് ചെന്ന് എന്നത് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നതാണ് നിങ്ങൾ മനഃപാഠമാക്കേണ്ടത് ഇതിനെയാണ് നമ്പർ പെഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് വിവരങ്ങളുടെ ഒരു വലിയ ഭാഗം അതിനെ ഇതുപോലെയുള്ള അക്കങ്ങളെ പരിവർത്തനം ചെയ്ത് മറ്റൊന്നിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് ഒരു കഥയായി വീണ്ടും പരിവർത്തനം ചെയ്യുക ഇത് ആ അക്കങ്ങൾ വളരെ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു മാനസിക ചിത്രം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാലാണ് ഇതിനെ നമ്പർ പെഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് ഇതിലൂടെ ഓർമ്മ എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ച അവസാനത്തിലെത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ സെൻസറി ഹ്രസ്വകാലം കൂടാതെ ദീർഘകാല ഓർമ്മ എന്നീ ഓർമ്മയുടെ മൂന്ന് ഘടനകളെ കുറിച്ച് നാം ചർച്ച ചെയ്തു ദീർഘകാലത്തിൽ ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ട് ദീർഘകാല സംഭരണത്തിലെ പല രീതികൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞു സെമാൻറിക്ക് ഓർമ്മയിൽ നാം എപ്പിസോഡിക് ഓർമ്മയെയും അവിടെയും നാം തരംതിരിച്ചു സുപ്രധാനമായ വ്യത്യസ്തതരം ഓർമ്മകൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യപ്പെടുകയുണ്ടായി തുടർന്ന് എന്നിട്ട് ജീവിതത്തിൻറെ നടപടിക്രമ വശങ്ങളിലേക്ക് നാം എത്തുകയും ഓർമ്മയെ പ്രസീജറൽ ഓർമ്മയെന്നും ഡിക്ലറേറ്റീവ് ഓർമ്മയെന്നും വിഭജിക്കാമെന്നും അതിനെ ഓർമ്മയുടെ സ്പഷ്ടവും പരോക്ഷവുമായ വശങ്ങൾ എന്നും വിളിക്കുന്നു അതുകഴിഞ്ഞ് നാം മറവിയെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ നാം ഓർമ്മയെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുവാൻ പോകുകയാണ് നാം മനസ്സിലാക്കേണ്ടതെന്തെന്നാൽ ലോക്കസ് രീതി അല്ലെങ്കിൽ നമ്പർ പെഗ് ടെക്നിക്ക് എന്നീ ബുദ്ധിപരമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ കൂടുതൽ സംഭരിക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി കണ്ടുമുട്ടുമ്പോൾ ഒരു പുതിയ ആശയത്തെക്കുറിച്ചായിരിക്കും നാം സംസാരിക്കുക വികാരമായിരിക്കും ആ പുതിയ ആശയം അപ്പോൾ ഇന്ദ്രിയാവബോധം അവബോധം പഠനം ഓർമ്മ എന്നിവയിൽ നിന്നുമാണ് തുടങ്ങിയത് കൂടാത്ത ഇപ്പോൾ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നായ മനുഷ്യ വികാരത്തിലേക്കാണ് നാം കടന്നു വരുന്നത് അതായിരിക്കും നമ്മുടെ അടുത്ത പഠന ശ്രേണി സൂചകപദങ്ങൾ മറവി മറവിയുടെ സിദ്ധാന്തങ്ങൾ മറവിയുടെ വക്രരേഖ നിമോണിക്സ് നമ്പർ പെഗ് ടെക്നിക്ക് ലോക്കിയുടെ രീതി